ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കറന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കണക്കാക്കുമ്പോൾ അത് 200μA ആയിരിക്കണമെന്നായിരിക്കും എന്റെ മനസ്സിൽ സർക്യൂട്ടുകളുടെ കാര്യത്തിൽ അതിന്റെ അർത്ഥം ആവശ്യമുള്ള മൂല്യത്തിന്റെ കറൻറ് സോഴ്സ് ലഭ്യമാണ് എന്നതാണ് അതിനർത്ഥം എനിക്ക് 200 μA ഉണ്ട് പൊതുവെ അതിനെ I0 എന്ന് വിളിക്കട്ടെ I0 എന്ന മൂല്യത്തിന്റെ സോഴ്സ് ലഭ്യമാണ് ഈ കറൻറ് സോഴ്സ് എങ്ങനെ നിർമ്മിക്കാം നമ്മൾ ഇത് പിന്നീട് കാണുന്നു കാരണം ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ എല്ലാം ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് നിർമ്മിക്കേണ്ടതുണ്ട് കൂടാതെ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് കറൻറ് സോഴ്സ് നിർമ്മിക്കാനുള്ള വഴികളുമുണ്ട് അതിനാൽ ഈ കറൻറ് സോഴ്സ് ലഭ്യമാണ് നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട് ഇതിന്റെ ഡ്രെയിൻ കറന്റ് I0 നു തുല്യമായിരിക്കണം തീർച്ചയായും I0 നേരിട്ട് ബന്ധിപ്പിക്കുന്നത് നടക്കില്ല കാരണം ട്രാൻസിസ്റ്റർ ഒരു യൂണിലാറ്ററൽ ഉപകരണമാണ് അതിനാൽ ഈ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ക്രമീകരിക്കുക എന്നതുമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് നിയന്ത്രിക്കുകയും സോഴ്സ് വോൾട്ടേജ് സ്ഥിരമായി നിലനിർത്തുകയും ചെയ്യും ഏത് വോൾട്ടേജിലേക്കും എനിക്കിത് ഫിക്സ് ചെയ്യാൻ കഴിയും പക്ഷേ ഞാൻ ഗ്രൌണ്ടുമായി ബന്ധിക്കും ഞാൻ അതിനെ ഏത് വോൾട്ടേജുമായി ബന്ധിപ്പിക്കുന്നു എന്നത് പ്രശ്നമല്ല ഇപ്പോൾ അത് ഗ്രൌണ്ട് ആണെന്ന് കരുതുക അതിനാൽ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാൽ ഇതാണ് ഗേറ്റ് വോൾട്ടേജ് VG ഞാൻ അത് നിയന്ത്രിക്കണം എങ്ങനെയെങ്കിലും സർക്യൂട്ട് ക്രമീകരണവുമായി വരണം ഇത് ഞാൻ ചെയ്യുന്നത് ശരിക്കും ശരിയല്ല ഞാൻ അമ്മീറ്റർ നോക്കി ക്രമീകരിക്കുന്നില്ല ഞാൻ സർക്യൂട്ട് ക്രമീകരിക്കണം അങ്ങനെ ഒടുവിൽ എല്ലാം കഴിയുമ്പോൾ IDയുടെ മൂല്യം I0 നു തുല്യമാകണം അതിനാൽ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ പ്രക്രിയ നമ്മൾ വിവരിച്ചതുപോലെ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ID യും I0 ഉം തമ്മിൽ താരതമ്യം ചെയ്യണം ഗേറ്റ് വോൾട്ടേജ് VG ക്രമീകരിക്കുക അതിനാൽ ID I0 നേക്കാൾ കൂടുതലാണോ അതോ ID I0 നേക്കാൾ കുറവാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ രണ്ട് കറൻറുകളെ എങ്ങനെ താരതമ്യം ചെയ്യാം താരതമ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രധാനമായും ID I0 നേക്കാൾ കൂടുതലാണോ കുറവണോ എന്നു എനിക്ക് അറിയണം ഇത് ചെയ്യുന്നതിനുള്ള ഒരു പൊതു മാർഗ്ഗം I0 ID നോക്കുക എന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ID I0 നോക്കാനും കഴിയും അതിനാൽ I0 ID ന്റെ സൈൻ എന്നത് I0 ID പോസിറ്റീവ് ആണെങ്കിൽ എന്റെ ഡ്രെയിൻ കറന്റ് ID വളരെ ചെറുതാണെന്ന് എനിക്ക് അറിയാം I0 ID നെഗറ്റീവ് ആണെങ്കിൽ ID വളരെ വലുതാണെന്ന് എനിക്കറിയാം അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും അതിനാൽ രണ്ട് കറൻറുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ബീജഗണിതപരമായി രണ്ട് കറൻറുകളുടെ ആകെത്തുക എടുക്കാൻ എനിക്ക് കഴിയണം ഈ ഭാഗം വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് രണ്ട് കറൻറുകളെ താരതമ്യം ചെയ്യണം അതായത് ഈ രണ്ട് കറൻറുകൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ കണക്കാക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രണ്ട് വൈദ്യുതധാരകളുടെ ഒരുതരം ആൾജിബ്രായിക് സം രണ്ട് കറൻറുകളെ എങ്ങനെ സംഗ്രഹിക്കാം നമുക്കറിയാം കിർചൊഫിന്റെ കറൻറ് നിയമ Kirchhoff's current law പ്രകാരം നിങ്ങൾ ഒരു നോഡിലേക്ക് രണ്ടു കറൻറ് കണക്റ്റുചെയ്താൽ ആ നോഡിൽ നിന്നു പുറത്തേക്ക് ഒഴുകുന്ന കറൻറ് ഈ രണ്ടെണ്ണത്തിന്റെയും തുകയായിരിക്കും അതായത് എനിക്ക് I1 I2 ആ വഴിക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒഴുകുന്നത് I1 I2 ആയിരിക്കും മറുവശത്ത് എനിക്ക് എതിർദിശയിൽ I2 ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് I1 I2 ലഭിക്കുമായിരുന്നു അതിനാൽ ഒരു നോഡിലേക്ക് കറൻറ് ബന്ധിപ്പിക്കുന്നതിലൂടെ നോഡിൽ നിന്ന് എന്താണ് പുറത്തേക്ക് ഒഴുകുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടു നോഡിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് കറൻറുകളുടെ ആകെത്തുകയായിരിക്കും അതാണ് നമുക്ക് വേണ്ടത് അതിനാൽ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ I0 ID കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചാൽ ഞാൻ അത് ഇങ്ങനെ കാണിക്കട്ടെ ഈ നോഡിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതെന്താണ് ഞാൻ ഇതുവരെ അവിടെ ഒന്നും ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് I0 ID ആണ് ഈ ഭാഗം വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ബേസിക് ആയിട്ടുള്ള കിർചോഫിന്റെ കറൻറ് നിയമം മാത്രമാണ് ഇത് അതിനാൽ I0 ഈ വയറിൽക്കൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ ID അവിടെ ഒഴുകുന്നുവെങ്കിൽ പുറത്തു പോകുന്നത് I0 ID ക്ക് തുല്യമായിരിക്കണം ഇപ്പോൾ ഇത് ശരിക്കും എവിടെ പോകുന്നു നിങ്ങൾ ഇത് ഇതുമായി ബന്ധിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്തമായ കറൻറുകൾ ഉണ്ട് ഐഡിയൽ കറൻറ് സോഴ്സുകളുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും അത്തരമൊരു കണക്ഷൻ അനുവദനീയമല്ലെന്ന് നമ്മൾ പറയുന്നു അതിനാൽ അത്തരമൊരു കണക്ഷൻ അനുവദനീയമല്ല കാരണം ഇത് കിർചോഫിന്റെ കറൻറ് നിയമത്തെ ലംഘിക്കുന്നു പക്ഷേ തീർച്ചയായും ട്രാൻസിസ്റ്റർ കറൻറ് സോഴ്സ് എന്നിങ്ങനെ രണ്ട് കാര്യങ്ങൾ എടുത്ത് അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നില്ല ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ഇനിപ്പറയുന്നവയാണ് ഓരോ നോഡിലും കുറച്ച് പാരസിറ്റിക് കപ്പാസിറ്റൻസ് ഉണ്ടാകും ഏത് സമയത്തും നിങ്ങൾക്ക് രണ്ട് കണ്ടക്ടറുകൾ ചില ഡൈഇലക്ട്രിക് ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ടാകാമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അവയ്ക്കിടയിൽ ചില കപ്പാസിറ്റൻസ് ഉണ്ടാകും അതിനർത്ഥം നമുക്ക് നിരവധി വയറുകളുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഓരോ വയറുകൾ തമ്മിലും കപ്പാസിറ്ററുകൾ ഉണ്ടാകും അതിനാൽ I0 ID യിൽ വ്യത്യസ്തമാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അത് ഒരു കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്നു എന്നു ചിന്തിക്കേണ്ടി വരും കപ്പാസിറ്റർ എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയും അതിൽ കാര്യമില്ല പക്ഷെ ഇത് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കപ്പാസിറ്ററാണെന്ന് നമ്മൾ അനുമാനിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതിന്റെ ഫലം കപ്പാസിറ്ററിന്റെ കണക്ഷൻ ഉണ്ടായാലും മാറാൻ പോകുന്നില്ല അതിനാൽ ഇത് ഒരു കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്നു ഈ കപ്പാസിറ്റർ ചെറുതായിരിക്കാം അത് പ്രശ്നമല്ല ഇവിടെ വോൾട്ടേജ് എത്ര വേഗത്തിൽ മാറുന്നുവെന്ന് മാത്രമേ അത് പറയൂ കിർചോഫിന്റെ കറൻറ് നിയമം അനുസരിച്ച് ഈ കറൻറ് എവിടെയെങ്കിലും ഒഴുകേണ്ടതുണ്ട് അത് ആ നോഡുമായി ബന്ധപ്പെട്ട പാരാസിറ്റിക് കപ്പാസിറ്റൻസിലേക്ക് ഒഴുകും അതിനാൽ ഈ ഭാഗം വളരെ വ്യക്തമാണെന്ന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ തിരികെ പോയി അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് ഒരു നോഡിലേക്ക് രണ്ട് കറൻറുകൾ വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് കറൻറുകളും അസമമാണെങ്കിൽ വ്യത്യാസം ഒരു പാരാസിറ്റിക് കപ്പാസിറ്റൻസിലേക്ക് ഒഴുകും അതിനാൽ അത് കാരണം എന്തു സംഭവിക്കുന്നു ID I0 നേക്കാൾ ചെറുതാണെങ്കിൽ അതിനർഥം I0 ID പൂജ്യത്തേക്കാൾ വലുതാണെന്നാണ് അതിനാൽ ഈ കപ്പാസിറ്ററിലേക്ക് കറന്റ് പമ്പ് ചെയ്യുന്നു ഈ കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജ് വർദ്ധിക്കുന്നു അതിന്റെ അർത്ഥമെന്താണ് ഇത് ഗ്രൌണ്ട് ആണ് ഇതാണ് ഡ്രെയിൻ വോൾട്ടേജ് VD ഡ്രെയിൻ വോൾട്ടേജ് VD വർദ്ധിക്കുന്നു ഇത് കപ്പാസിറ്ററിന്റെ അടിസ്ഥാന സ്വഭാവമാണ് നിങ്ങൾ ഇതുപോലെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് അളക്കുകയാണെങ്കിൽ ആ ദിശയിൽ ഒരു കറന്റ് പോസിറ്റീവ് കറന്റ് പമ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാൽ ഈ VC വർദ്ധിച്ചുകൊണ്ടിരിക്കും കാരണം VC 1CI dt ആണ് കറൻറിന്റെയോ വോൾട്ടേജിന്റെയോ ആകൃതിയെക്കുറിച്ച് നാം വിഷമിക്കേണ്ടതില്ല നമ്മൾ ആകെ അറിയേണ്ടത് കറന്റ് പോസിറ്റീവ് ആണെങ്കിൽ വോൾട്ടേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ അതുപോലെ ID I0നേക്കാൾ വലുതായാൽ അതിനർത്ഥം പമ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കറന്റ് താഴേക്ക് ഒഴുകുന്നു അതിനാൽ ഈ കറന്റ് നെഗറ്റീവ് ആയിരിക്കും കപ്പാസിറ്ററിന്റെ മുകളിലെ പ്ലേറ്റിൽ നിന്നാണ് കറന്റ് യഥാർത്ഥത്തിൽ വരുന്നത് VD കുറയുന്നു ഡ്രെയിൻ വോൾട്ടേജ് കുറയുന്നു അതായത് നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് കപ്പാസിറ്റർ വോൾട്ടേജ് അളക്കുന്നത് നിങ്ങൾക്ക് ഈ ദിശയിൽ ഒരു കറൻറ് ഉണ്ടെങ്കിൽ ഈ VC കുറയുന്നു കാരണം നിങ്ങൾ മുകളിലെ പ്ലേറ്റിൽ നിന്ന് ചാർജ് എടുക്കുന്നു അതിനാൽ ഇതാണ് നമ്മൾ അറിയേണ്ടത് I0 ID യേക്കാൾ കൂടുതലാണോ I0 ID നേക്കാൾ കുറവണോ എന്നതിനെ അടിസ്ഥാനമാക്കി VD വർദ്ധിക്കുകയോ കുറയുകയോയെന്ന് നാം അറിയേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നേരത്തെ ഞാൻ അമ്മീറ്റർ നോക്കി ഇത് ചെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് സർക്യൂട്ട് സ്വയം ചെയ്യുന്ന രീതിയിൽ എനിക്ക് ആവശ്യമുണ്ട് I0 ID യേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ID I0 നേക്കാൾ കുറവാണെങ്കിൽ എന്തു സംഭവിക്കും ഞാൻ എന്തു ചെയ്യണം ID കുറവാണെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് ID യുടെ മൂല്യം കൂട്ടണം അതിനാൽ എനിക്ക് VG യുടെ വാല്യൂ കൂട്ടണം കാരണം ID VG യുടെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് ID വേഴ്സസ് VG ആണെന്ന് നമുക്കറിയാം ഇതാണ് സ്ക്വെർ ലോ ഇത് അത് പോലെ തോന്നുന്നു അതിനാൽ എനിക്ക് ID വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടെ നിന്ന് അവിടെ വരെ പോകണം എനിക്ക് VG യുടെ മൂല്യം വർദ്ധിപ്പിക്കണം ID I0 നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ VG വർദ്ധിപ്പിക്കണം കൂടാതെ ID I0 നേക്കാൾ വലുതാണെങ്കിൽ വിപരീതവും അതിനർത്ഥം ID വളരെ വലുതാണെങ്കിൽ നമ്മൾ അതിനെ ചെറുതാക്കണം അതിനാൽ ഇത് ചെറുതാക്കാനുള്ള വഴി VGയുടെ മൂല്യം കുറയ്ക്കുക എന്നതാണ് അതിനാൽ ഇതാണ് നമുക്ക് ആവശ്യമായ പ്രവർത്തനം നമുക്ക് ആവശ്യമായ ഫീഡ്ബാക്ക് പ്രവർത്തനമാണിത് ഇപ്പോൾ ഇത് തന്നെ നടക്കുന്ന രീതിയിൽ സർക്യൂട്ട് എങ്ങനെ ക്രമീകരിക്കും നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഡ്രെയിൻ വോൾട്ടേജ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ ID I0നേക്കാൾ ചെറുതാണെങ്കിൽ VD യഥാർത്ഥത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ വ്യത്യാസമുള്ള കറന്റ് പാരാസിറ്റിക് കപ്പാസിറ്ററിലേക്ക് പ്രവഹിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു VGയിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചതിന് തുല്യമാണ് ഇത് അതുപോലെ ID I0 നേക്കാൾ കൂടുതലാണെങ്കിൽ VD കുറയുകയും ചെയ്യുന്നു ID I0 നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ VG കുറയ്ക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ VG ക്ക് നമ്മൾ എന്താണ് സംഭവിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നത് അത് ഇതിനകം തന്നെ ഡ്രെയിനിൽ സംഭവിക്കുന്നു നമ്മൾ ഗേറ്റ് വോൾട്ടേജിൽ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ കണക്ഷൻ കാരണം ഡ്രെയിൻ വോൾട്ടേജിന് സംഭവിക്കുന്നു അതിനാൽ പരിഹാരം ഇപ്പോൾ വളരെ വ്യക്തമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗ്ഗം ഈ VD എങ്ങനെയെങ്കിലും VG യായി മാറ്റുക എന്നതാണ് അതിനുള്ള എളുപ്പമാർഗ്ഗം ഗേറ്റിനെ ഡ്രെയിനിലേക്ക് ബന്ധിപ്പിക്കുക എന്നതാണ് വീണ്ടും VG ക്കായി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് VG നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഡ്രെയിനിൽ സംഭവിക്കുന്നു അതിനാൽ ചെയ്യാൻ എളുപ്പമുള്ള കാര്യം VG VD ആക്കുക എന്നതാണ് അത് നമുക്ക് ഫസ്റ്റ് ടൈപ് സർക്യൂട്ട് നൽകുന്നു ഇത് എവിടെയെങ്കിലും ബന്ധിപ്പിച്ചിരിക്കും സപ്ലൈ വോൾട്ടേജ് VDD യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് കരുതുക ഇതാണ് കറൻറ് I0 ഇതാണ് ശരിക്കുമുള്ള ഡ്രെയിൻ കറൻറ് ID I0 ID പാരാസിറ്റിക് കപ്പാസിറ്റർ ആയ Cp യിലേക്ക് പോകുന്നു അതിന്റെ വലുപ്പത്തെക്കുറിച്ച് വിഷമിക്കേണ്ട അത് ഡ്രെയിനിൽ കിട്ടുന്ന വോൾട്ടേജ് വ്യതിയാനത്തെക്കുറിച്ച് സങ്കൽപ്പിക്കാൻ മാത്രമാണ് ഗേറ്റിലേക്ക് ഡ്രെയിൻ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഈ കണക്ഷൻ കാരണം നമ്മൾ VG യെ VDയ്ക്ക് തുല്യമാക്കുന്നു ഇപ്പോൾ എന്ത് സംഭവിക്കും ഇപ്പോൾ ID I0 നേക്കാൾ കുറവാണെങ്കിൽ ചില കറൻറ് ഈ കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്നു ഈ വോൾട്ടേജ് കൂടിക്കൂടി വരും മറുവശത്ത് ID I0 നേക്കാൾ കൂടുതലാണെങ്കിൽ മുകളിലെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് കറന്റ് എടുക്കുകയും ഈ വോൾട്ടേജ് കുറയുകയും ചെയ്യും ID I0 നേക്കാൾ വലുതാണെങ്കിൽ VD തുടർച്ചയായി കുറയുന്നു ഇപ്പോൾ എപ്പോഴാണ് VD സ്ഥിരമായി തുടരുന്നത് ID I0 നു കൃത്യമായി തുല്യമാണെങ്കിൽ മാത്രമേ VD സ്ഥിരമായി നിലനിൽക്കൂ ഇപ്പോൾ ഈ കണക്ഷൻ കാരണം എന്തുസംഭവിക്കുന്നുവെന്ന് നോക്കാം ID തുടക്കത്തിൽ I0 നേക്കാൾ ചെറുതാണെന്ന് വിചാരിക്കുക നിങ്ങൾ ആരംഭിക്കുമ്പോൾ അത് പൂജ്യം കറന്റിൽ നിന്ന് ആരംഭിക്കുന്നു തുടർന്ന് ഡ്രെയിൻ വോൾട്ടേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു ഗേറ്റ് വോൾട്ടേജും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇത് ID യുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ ID I0 യേക്കാൾ ചെറുതാണ് അതിനാൽ ഈ ID ഈ ഫീഡ്ബാക്ക് കാരണം കൂടിക്കൂടി വരും ഇതാണ് ശരിക്ക് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ID വളരെ വലുതാണെങ്കിൽ ID I0 നേക്കാൾ ഉയർന്നതാണെങ്കിൽ VD കുറയുന്നു ഇത് ഗേറ്റ് വോൾട്ടേജ് കുറയ്ക്കും ഇത് ഡ്രെയിൻ കറന്റ് കുറയ്ക്കും അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുന്നത് VG കൂടുന്നു ഇത് ID കൂടുന്നതിനെ സൂചിപ്പിക്കുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ VG കുറയുന്നു ഇത് ID യും കുറയുന്നതിനെ സൂചിപ്പിക്കുന്നു രണ്ടായാലും എന്തു സംഭവിക്കും രണ്ടും ഈ സ്റ്റേറ്റിൽ വന്ന് അവസാനിക്കും അതുകൊണ്ട് ഈ കേസിൽ ഫീഡ്ബാക്ക് കാരണം ID കൂടിക്കൂടി വരും അതിന്റെ വേഗത കൂടുതലാണോ കുറവാനോ എന്നതിനെ പറ്റി വിഷമിക്കേണ്ടതില്ല I0 ID യുമായി തുല്യമാകുന്നത് വരെ ഇത് തുടരും അതിനാൽ ആ സാഹചര്യത്തിൽ അത് നിൽക്കും ഈ കാര്യത്തിലും ഇതുതന്നെ സംഭവിക്കുന്നു ഈ സാഹചര്യത്തിൽ ID I0നു തുല്യമാകുന്നതുവരെ കുറയുന്നു ഇപ്പോൾ ഇത് I0 നു തുല്യമല്ലെങ്കിൽ സർക്യൂട്ട് സ്റ്റെഡി സ്റ്റേറ്റിൽ എത്തില്ലെന്ന് നമുക്കറിയാം കാരണം ഈ വോൾട്ടേജ് കൂടുകയോ കുറയുകയോ ചെയ്യും അവസാനമായി ഈ വോൾട്ടേജ് സ്ഥിരമാകുമ്പോൾ ID I0 തുല്യമാണെന്ന് നമുക്ക് ഉറപ്പുനൽകാം അതായത് കിർചോഫിന്റെ കറൻറ് നിയമപ്രകാരം അതിനാൽ ഒരു ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യിക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാന മാർഗ്ഗമാണിത് ഇതിനെ ഡ്രെയിൻ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നു അതിന്റെ യഥാർത്ഥ അർത്ഥം ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ഗേറ്റ് സോഴ്സിലേക്ക് ഫീഡ്ബാക്കാണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഈ കേസിൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിന് തുല്യമാണ് അതിനാൽ ഡ്രെയിൻ വോൾട്ടേജ് എങ്ങനെയെങ്കിലും ഗേറ്റിലേക്ക് തിരികെ കൊടുക്കുന്നു ഒടുവിൽ ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ കറന്റ് ആവശ്യമുള്ള കറന്റ് I0 നു തുല്യമായ അവസ്ഥയിൽ സ്റ്റെഡി സ്റ്റേറ്റിൽ എത്തുന്നു ഞാൻ വളരെ ശക്തമായി ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ I0 ട്രാൻസിസ്റ്ററിലേക്ക് എങ്ങനെയെങ്കിലും പ്രയോഗിക്കുന്നതായി ചിന്തിക്കരുത് ഇതാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട് I0 യും ID ഉം തമ്മിലുള്ള വ്യത്യാസം ഗേറ്റ് വോൾട്ടേജിനെ നിയന്ത്രിക്കുന്ന ചില ഫീഡ്ബാക്ക് പ്രവർത്തനങ്ങളെ പ്രേരിപ്പിക്കുന്നു ഗേറ്റ് വോൾട്ടേജ് നിയന്ത്രിക്കുന്നതിലൂടെ മാത്രമേ ID മാറ്റാൻ കഴിയൂ അതിനാൽ ഇതാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട് I0 ID യിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ VG മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു I0 ID ക്ക് തുല്യമാണെങ്കിലേ VG സ്ഥിരമായി തുടരുകയുള്ളൂ ഒടുവിൽ സർക്യൂട്ട് സ്റ്റെഡി സ്റ്റേറ്റിൽ എത്തും അതിനാൽ ഇത് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടാണ് ഇപ്പോൾ ഇതിന്റെ മറ്റ് വകഭേദങ്ങളുണ്ട് അതായത് നമുക്ക് VG VD യുമായി നേരിട്ട് ബന്ധിപ്പിക്കേണ്ടതില്ല നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള വ്യതിയാനമാണ് VD വർദ്ധിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ VG യിലേക്ക് മാറ്റുന്നത് ഇത് ചെയ്യുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട് അതിനാൽ നമ്മൾ ഇനി പഠിക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഇതുപോലൊരു സർക്യൂട്ട് കണ്ടുപിടിക്കുമ്പോഴെല്ലാം നമ്മൾ ബയസ് സർക്യൂട്ടുമായി വരുമ്പോഴെല്ലാം ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് കാരണം ഇതാണ് ഒരു ആംപ്ലിഫയറിന്റെ ആവശ്യമായ ഓപ്പറേറ്റിംഗ് പോയിൻറ് അതിനാൽ നമ്മൾ അതും പരിശോധിക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ ഈ കേസിൽ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും കാരണം VDS VGS നു തുല്യമാണ് അതിനാൽ VT പോസിറ്റീവ് ആണെങ്കിൽ VDS എന്നത് VGS VT യേക്കാൾ വലുതായിരിക്കും എന്നാണ് ഇത് അർഥമാക്കുന്നത് അതിനാൽ നമുക്ക് പോസിറ്റീവ് VT ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ ഈ കണക്ഷൻ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മേഖലയിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നു അതിനാൽ ആംപ്ലിഫയറുകൾ നിർമ്മിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു ഇനിപ്പറയുന്ന പ്രഭാഷണങ്ങളിൽ ഇതിന്റെ വകഭേദങ്ങൾ നമ്മൾ കാണും